നമസ്കാരം അവസാന ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ് വേരിയബിളിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു കൂടാതെ നമുക്ക് ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ഉണ്ടെങ്കിൽ അത് n ഫസ്റ്റ് ഓർഡർ സമവാക്യങ്ങളാക്കി മാറ്റാമെന്നും കണ്ടു ആദ്യത്തെ ക്രമമായ ഈ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളെ ഒരു സ്റ്റേറ്റ് സമവാക്യമായി കണക്കാക്കാമെന്നും വിവിധ സ്റ്റേറ്റ് വേരിയബിളുകൾ നിർവചിക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്തു അതനുസരിച്ച് നമുക്ക് സ്റ്റേറ്റ് വേരിയബിളിനെ സ്റ്റേറ്റ് സമവാക്യം എന്ന് വിളിക്കാം നിങ്ങൾക്ക് മാട്രിക്സ് രൂപത്തിൽ എന്ന് എഴുതാൻ കഴിയുന്ന സമവാക്യം നമ്മൾ കണ്ടെത്തി സമാനമായ രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയുന്ന ഔട്ട്പുട്ട് സമവാക്യത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു കൂടാതെ നമുക്ക് എന്ന് എഴുതാം ഇന്ന് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യും സ്റ്റേറ്റ് ഡയഗ്രാമിലേക്ക് പോകുന്നതിനുമുമ്പ് മൾട്ടി വേരിയബിൾ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആദ്യം മനസിലാക്കാം അതിനർത്ഥം നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ഒന്നിലധികം വേരിയബിൾ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻറെ നിർവചനം ഒന്നിലധികം ഇൻപുട്ടുകളും ഔട്ട്പുട്ട്കളും ഉപയോഗിച്ച് ലീനിയർ സിസ്റ്റത്തിലേക്ക് എളുപ്പത്തിൽ വ്യാപിക്കാം നിങ്ങൾക്ക് ഒന്നിലധികം ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും ഉള്ള ഇത്തരത്തിലുള്ള സിസ്റ്റത്തെ മൾട്ടിവയറബിൾ സിസ്റ്റങ്ങൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഒരു ലീനിയർ സിസ്റ്റത്തിന് p ഇൻപുട്ടുകളും q ഔട്ട്പുട്ട്കളും ഉണ്ടെങ്കിൽ jth ഇൻപുട്ടും ith ഔട്ട്പുട്ട് തമ്മിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിർവചിക്കാം ഇപ്പോൾ മറ്റ് ഇൻപുട്ട് വേരിയബിളുകൾ 0 ആകുമ്പോൾ ഇത് ബാധകമാണ് അതിനർത്ഥം

അതിനാൽ നമ്മൾ ഒരു സമയം ഒരു ഇൻപുട്ട് പരിഗണിക്കുന്നു ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തുന്നതിനുള്ള jth ഇൻപുട്ട് പരിഗണിക്കുന്നതിന് മാത്രമാണ് ഇത് എല്ലാ ഇൻപുട്ടുകളും പരിഗണിക്കുകയാണെങ്കിൽ p ഇൻപുട്ടുകൾ എന്നും മാത്രമല്ല എല്ലാ ഇൻപുട്ടുകളും നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ S ഡൊമെയ്നിൽ രൂപാന്തരപ്പെടുത്തിയ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എഴുതാം അതായത് ഇപ്പോൾ സമാനമായി വിവിധ ഔട്ട്പുട്ട്കൾക്ക് അതായത് i 1 മുതൽ q വരെയുള്ള ഔട്ട്പുട്ട്നു ഈ സമവാക്യങ്ങൾ എഴുതാം കൂടാതെ നിങ്ങൾ എഴുതുമ്പോൾ മാട്രിക്സ് ഫോം ഇങ്ങനെ എഴുതാം q × 1 രൂപാന്തരപ്പെടുത്തിയ ഔട്ട്പുട്ട് വെക്റ്ററാണ് p × 1 രൂപാന്തരപ്പെടുത്തിയ ഇൻപുട്ട് വെക്റ്ററാണ് കൂടാതെ q × p ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാട്രിക്സ് ആണ് അതിനാൽ ഒന്നിലധികം ഔട്ട്പുട്ടും ഒന്നിലധികം ഇൻപുട്ടും അടങ്ങിയിരിക്കുന്ന മാട്രിക്സിനെ നിങ്ങൾ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം ഇൻപുട്ട് ഔട്ട്പുട്ട് ഉള്ളപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് ഒരു മൾട്ടിവേരിയബിൾ സിസ്റ്റം ഉണ്ടെന്നാണ് അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ കണ്ടെത്തും അതിനാൽ ഈ ബ്ലോക്ക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൾട്ടിവേരിയബിൾ സിസ്റ്റം ഉണ്ട് മുതൽ rp വരെ ഉള്ള ഒന്നിലധികം ഇൻപുട്ടുകളും 1 മുതൽ q വരെ ഉള്ള ഔട്ട്പുട്ടുകളും അതിനാൽ ചുരുക്കത്തിൽ ഇതിന് ഒരു ഇൻപുട്ട് ആയി ഒരു വെക്റ്റർ R ഉം ഔട്ട്പുട്ടായി വെക്റ്റർ Y ഉം ഉണ്ടെന്ന് പറയാൻ കഴിയും അതിനാൽ ഫീഡ്ബാക്ക് ലൂപ്പുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ മൾട്ടിവേരിയബിൾ ഇൻപുട്ടിൻറെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ നിർവചിക്കും അതിനാൽ ഈ മൾട്ടിവേരിയബിൾ ഇൻപുട്ടാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു വെക്റ്റർ ഇൻപുട്ടായും Y q പദങ്ങൾ അടങ്ങിയ വെക്റ്റർ ഔട്ട്പുട്ടായും ലഭിക്കും ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് അതിനാൽ ഇത് നമ്മൾ ഒരു കേസിൽ കണ്ട ട്രാൻസ്ഫർ മാട്രിക്സായി കണക്കാക്കാം അതിനാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ ഇതാണ് നിങ്ങളുടെ ഫോർവേഡ് പാത്ത് ഗെയിൻ മാട്രിക്സ് ഇതാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് പാത്ത് ഗെയിൻ മാട്രിക്സ് ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തിയാൽ അതിനാൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ എന്നത് ഒരു q × 1 ഔട്ട്പുട്ട് വെക്റ്ററാണ് എന്നിവയെല്ലാം p × 1 വെക്ടറുകളാണ് എന്നിവ യഥാക്രമം q × p p × q ട്രാൻസ്ഫർ ഫംഗ്ഷൻ മെട്രിക്സ് എന്നിവയാണ് ഇപ്പോൾ U B എന്നീ ഇന്റർമീഡിയറ്റ് വേരിയബിളുകൾ ഇല്ലാതാക്കേണ്ടതുണ്ട് എന്നതാണ് ലക്ഷ്യം അതിനാൽ ഈ മൂന്ന് സമവാക്യങ്ങളിൽ നിന്ന് U B എന്നിവ ഇല്ലാതാക്കുമ്പോൾ നമുക്ക് എഴുതാം ഇപ്പോൾ നിങ്ങൾ വീണ്ടും ശരിയാക്കി എഴുതുമ്പോൾ ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനാൽ മൾട്ടിവേരിയബിൾ സിസ്റ്റത്തിൻറെ കാര്യത്തിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാട്രിക്സ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ലഭിക്കുന്നത് ഫോർവേഡ് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാട്രിക്സ് ആണെന്നും ഫീഡ്ബാക്ക് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാട്രിക്സ് ആണെന്നും കരുതുക ഇപ്പോൾ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാട്രിക്സ് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ആദ്യം കളുടെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കാം അതിനാൽ സിസ്റ്റത്തിൻറെ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാട്രിക്സ് ഇനിപ്പറയുന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്നു ഇപ്പോൾ അടുത്തത് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാട്രിക്സ് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ അടച്ച ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാട്രിക്സ് കണ്ടെത്തുമ്പോൾ

അവിടെ അപ്പോൾ ഇനി നമുക്ക് സ്റ്റേറ്റ് ഡയഗ്രാമിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രം എന്താണ് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻറെ വിപുലീകരണം മാത്രമാണ് സ്റ്റേറ്റ് ഡയഗ്രം ഇത് നമ്മൾ ചർച്ച ചെയ്ത സ്റ്റേറ്റ് സമവാക്യങ്ങളും ഡിഫറൻഷ്യൽ സമവാക്യവും കാണിക്കുന്നു കാരണം നിങ്ങൾ ആദ്യത്തെ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമ്മൾ സംസാരിക്കുന്ന സ്റ്റേറ്റ് സമവാക്യമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻറെ വിപുലീകരണത്തിൽ സ്റ്റേറ്റ് സമവാക്യവും ഡിഫറൻഷ്യൽ സമവാക്യവും കാണിക്കാൻ കഴിയും അത് സ്റ്റേറ്റ് ഡയഗ്രംമല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രത്തിൻറെ പ്രാധാന്യം അത് സ്റ്റേറ്റ് സമവാക്യങ്ങൾ തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു എന്നതാണ് കമ്പ്യൂട്ടർ സിമുലേഷനും ട്രാൻസ്ഫർ ഫംഗ്ഷനും ഈ ഭാഗത്ത് ചർച്ച ചെയ്ത സ്റ്റേറ്റ് ഡയഗ്രം വിശദമായി കാണുമ്പോൾ അടിസ്ഥാനപരമായി ലാപ്ലേസ് രൂപാന്തരപ്പെടുത്തിയ സ്റ്റേറ്റ് സമവാക്യം ഉപയോഗിച്ച് നമ്മൾ ഇതുവരെ കണ്ട സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻറെ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് സ്റ്റേറ്റ് ഡയഗ്രം നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫും സ്റ്റേറ്റ് ഡയഗ്രാമും തമ്മിലുള്ള വ്യത്യാസം സംയോജന പ്രവർത്തനമാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫും സ്റ്റേറ്റ് ഡയഗ്രാമുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് അതിനാൽ നിങ്ങൾ സ്റ്റേറ്റ് ഡയഗ്രാമിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തനത്തിൻറെ സംയോജനം നിർവചിക്കുമെന്ന് ആദ്യം നോക്കാം എന്നീ രണ്ട് വേരിയബിളുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് പരസ്പരം ആയി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾ അവയെ സ്റ്റേറ്റ് ഡയഗ്രാമിൽ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഇത് അടിസ്ഥാനപരമായി x2 ആണെന്ന് നിങ്ങൾ പറയും ഇത് x1 ആണ് ആദ്യം ഇരുവശത്തും സംയോജനം നടത്തണം അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആൾജിബ്ര സമയ ഡൊമെയ്നിലെ സംയോജനം കൈകാര്യം ചെയ്യുന്നുവെന്ന് നമ്മൾക്കറിയാം അതിനാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇരുവശത്തും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം അതിനാൽ നമുക്ക് എഴുതാം അതിനാൽ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ച സംയോജനത്തിൻറെ സഹായത്തോടെ ഇത് തുല്യമായി പ്രതിനിധീകരിക്കാം ഇപ്പോൾ ഇതിൻറെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടാൽ നിങ്ങൾക്ക് ഇത് എഴുതാം സ്റ്റേറ്റ്സംക്രമണം ആരംഭിക്കും അതിനർത്ഥം ആണ് ഈ വിഭാഗം നിങ്ങൾക്ക് 0 കൊണ്ട് മാറ്റിസ്ഥാപിക്കാമെന്നാണ് ഇതിനർത്ഥം അതിനാൽ ഒടുവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ X1sX2sx1 എന്ന് നമ്മൾ കണ്ടെത്തിയ സമവാക്യം ഇപ്പോൾ ബീജഗണിതമാണ് മാത്രമല്ല സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആയി പ്രതിനിധീകരിക്കാം എങ്ങനെ പ്രതിനിധീകരിക്കും ഈ കണക്ക് കണ്ടാൽ നിങ്ങൾക്ക് രണ്ട് വേരിയബിളുകൾ ഉണ്ട് ഒന്ന് X2 മറ്റൊന്ന് X1 നമ്മൾ ഇവിടെ സംഗ്രഹിക്കുന്നു അത് സംഗ്രഹിക്കുന്ന ബ്ലോക്കാണ് അതിനാൽ ഈ സമയത്ത് ഇത് X2s x1 ആയിരിക്കും എന്നിട്ട് അതിനെ 1s കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ ഒടുവിൽ നിങ്ങൾക്ക് X2sx1s കൾ ലഭിക്കും അത് ഇപ്പോൾ നടത്തിയ സംയോജനത്തിൻറെ നിന്ന് ഉരുത്തിരിഞ്ഞ സമവാക്യം മാത്രമാണ് പകരമായി നിങ്ങൾക്ക് ഇത് കുറഞ്ഞ കണക്ഷനുകളിൽ പ്രതിനിധീകരിക്കാനും കഴിയും അതിനാൽ ഈ ബ്ലോക്ക് നെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കേസുകളിലും ഇടാം അതിനാൽ ഇവിടെ നിങ്ങൾ സംഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ രണ്ട് കണക്കുകളും ഒരേ സമവാക്യത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ കണക്കിൻറെ പ്രയോജനം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സമവാക്യം കാണിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ഘടകങ്ങൾ മാത്രം ആവശ്യമാണ് എന്നതാണ് ഇപ്പോൾ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളെ നിങ്ങൾ എങ്ങനെ സ്റ്റേറ്റ് ഡയഗ്രാമുകളാക്കി മാറ്റുമെന്ന് നോക്കാം അതിനാൽ ഉയർന്ന ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളാൽ ലീനിയർ സിസ്റ്റത്തെ വിവരിക്കുമ്പോൾ ഈ സമവാക്യങ്ങളിൽ നിന്ന് സ്റ്റേറ്റ് ഡയഗ്രം നിർമ്മിക്കാൻ കഴിയും എങ്ങനെ നിങ്ങൾ നിർമ്മിക്കും നമുക്ക് ഒരു ഡിഫറൻഷ്യൽ സമവാക്യം പരിഗണിക്കാം nth ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യമാണ് അതിനാൽ അതിനാൽ നിങ്ങൾക്ക് ഈ ഡിഫറൻഷ്യൽ സമവാക്യം ലഭിച്ചുവെന്നും ഈ ഡിഫറൻഷ്യൽ സമവാക്യം സ്റ്റേറ്റ് ഡയഗ്രാമിലേക്ക് പരിവർത്തനം ചെയ്യണമെന്നും കരുതുക ഈ സമവാക്യത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഈ സമവാക്യം പുന ക്രമീകരിക്കണം അതായത് നമ്മൾ ഇങ്ങനെ എഴുതും അതിനാൽ നിങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങൾ ഇത് ഇടത് ഘടകമായും ബാക്കിയുള്ളവ വലതുവശത്തേക്കും മാറ്റി അതിനാൽ മുമ്പത്തെ സമവാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ സമവാക്യം ലഭിച്ചു അതിനാൽ ഓരോ ഘടകവും അവയുടെ ലാപ്ലേസ് പരിവർത്തനമായി പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഈ പ്രത്യേക ഘടകം Rt യുടെ ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിച്ച് പകരം വെക്കാൻ സാധിക്കും നമുക്ക് ഇപ്പോൾ ആകെ n ഘടകങ്ങൾ ഉണ്ട് അതിൽ ഒന്ന് വലതുവശത്ത് നിർബന്ധിത പ്രവർത്തനമായി പ്രവർത്തിക്കുന്നു അതിനാൽ ഇവ സാധാരണയായി ഒരു നോഡായി കണക്കാക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾ അവയെ ഒരു നോഡായി പ്രതിനിധീകരിക്കുമ്പോൾ അവ ചിത്രത്തിൽ ഇങ്ങനെ കാണിക്കാം അതിനാൽ നമ്മൾ y കാണും നമ്മൾ ഒരു നോഡ് Y ആയി ഇട്ടു അടുത്തത് sY എന്നും തുടർന്ന് അങ്ങനെ അതിനാൽ നമ്മൾക്ക് sn മൈനസ് 1Y വരെയും അവസാന ഘടകത്തിനായി snY വരെയും കിട്ടി എന്നിട്ട് നമ്മൾ R ചേർക്കുന്നു സമവാക്യത്തിൽ കണ്ട എല്ലാ ഘടകങ്ങളും നോഡുകളായി ഇട്ടു അതിനാൽ എന്താണ് siYs അതിനാൽ ith ഓർഡർ ആയ ഡിഫറൻഷ്യൽ ഘടകം diY dti എന്നാൽ siY അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ nth ഓർഡർ ഘടകത്തിനായി നമ്മൾ snY എന്ന് എഴുതി ഇപ്പോൾ നോഡുകൾ നമ്മൾ നിർവചിച്ചു ലിങ്കുകൾ നിർവചിക്കാൻ ഈ സമവാക്യം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാൽ നിങ്ങൾ ഇപ്പോൾ പുനക്രമീകരിച്ച സമവാക്യം ആണെങ്കിൽ നിങ്ങൾക്ക് കണക്ഷനുകൾ കാണാൻ കഴിയും അതിനാൽ ഈ പ്രത്യേക നോഡിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് എന്ന ഈ പ്രത്യേക ഘടകത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇത് മറ്റെല്ലാ ഘടകങ്ങളുടെയും സംഗ്രഹമായിരിക്കും എന്നാണ് ഇതിനർത്ഥം അതിനാൽ r ക്ക് അവിടെ ഒരു ഘടക ഗുണകവും ഇല്ല അതിനാൽ നിങ്ങൾ r നെ s ൻറെ പവർ ny യുമായി യൂണിറ്റ് ഗേയിൻ കൊണ്ട് മാത്രം ബന്ധിപ്പിക്കും ഇപ്പോൾ ഈ പ്രത്യേക ഘടകം നമുക്ക് നോക്കാം അതിനാൽ s ഡൊമെയ്നിൽ നിങ്ങൾക്ക് മൈനസ് a1y എന്ന് എഴുതാം ഈ പ്രത്യേക ഘടകത്തിനായുള്ള നിങ്ങളുടെ ഗുണകം മൈനസ് a1 ആണ് അതിനാൽ നിങ്ങൾ എന്തു ചെയ്യും മൈനസ് a1 ഉപയോഗിച്ച് നിങ്ങൾ Y യെ n പവർ മായി ബന്ധിപ്പിക്കും അതുപോലെ ഇതിനായി നിങ്ങൾക്ക് മൈനസ് a2 ഗുണനം sy എന്ന് എഴുതാൻ കഴിയും നിങ്ങൾ ഇവിടെ കാണുന്ന sy ഇത് a2 എന്ന കോഫിഫിഷ്യന്റ് ഉപയോഗിച്ച് പവർ ny ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് കണക്ഷനായി മൈനസ് a2 ലഭിച്ചു അതുപോലെ തന്നെ അവയെല്ലാം കണക്റ്റുചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ഒടുവിൽ ലഭിക്കുന്നത് ആണ് അതായത് r y y y എന്നിങ്ങനെ മൈനസ് a2sy a1y വരെ അതിനാൽ ഈ പ്രത്യേക ചിത്രം നിങ്ങൾ ഇപ്പോൾ എഴുതിയ ഡിഫറൻഷ്യൽ സമവാക്യത്തെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ അവശേഷിക്കുന്ന പ്രധാന കാര്യം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന നോഡുകളെ നമ്മൾ എങ്ങനെ ബന്ധിപ്പിക്കും എന്നതാണ് നമ്മൾ എങ്ങനെ അവയെ ബന്ധിപ്പിക്കും മുമ്പത്തെ കേസ് ചർച്ച ചെയ്തപ്പോൾ x1 ഉം x2 ഉം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ ചർച്ച ചെയ്യും അതിനാൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഈ അറിവ് ഘടകങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കും അതിനാൽ ഈ വശത്തുള്ള x1 ഘടകം x2 മായി ബന്ധിപ്പിച്ചിരിക്കുന്നതായി കണ്ടോ നിങ്ങൾ എങ്ങനെ അതിനെ ബന്ധിപ്പിക്കുന്നു നിങ്ങൾ sy യുമായി കണക്ട് ചെയ്യുന്നു y ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഒപ്പം y ൻറെ പ്രാരംഭ അവസ്ഥയും അതായത് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ നേടിയ സമവാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് ഇതാണ് അതിനാൽ നിങ്ങൾ x1 കണ്ടാൽ x1 എന്നത് അല്ലാതെ മറ്റൊന്നുമല്ല നമ്മുടെ കാര്യത്തിൽ x1s എന്നത് y x2s എന്നത് sy ആണ് അതിനാൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ആ വിവരങ്ങൾ ഉപയോഗിക്കുകയും അടുത്തുള്ള നോഡുകളെ ബന്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് അടുത്തുള്ള എല്ലാ നോഡുകളെയും 1 s ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് പ്രാരംഭ അവസ്ഥ നൽകുകയും ചെയ്യാം കാരണം നിങ്ങൾ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തെ n ആദ്യ ഓർഡർ സമവാക്യങ്ങളായി വിഭജിക്കുമ്പോൾ നമ്മൾ ഈ കേസിൽ ചർച്ച ചെയ്തതുപോലെ നിങ്ങൾക്ക് സമവാക്യം ഉണ്ടാകും അതിനാൽ എല്ലാ സ്റ്റേറ്റ് വേരിയബിളിനും പ്രാരംഭ നിബന്ധനകളുള്ള ലാപ്ലേസ് ഡൊമെയ്നിൽ നിങ്ങൾക്ക് ഈ സമവാക്യങ്ങൾ ലഭിക്കും അതിനാൽ നമ്മൾ ആ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും എല്ലാ സ്റ്റേറ്റ് വേരിയബിളുകളുടെയും പ്രാരംഭ നിബന്ധനകൾ സ്ഥാപിക്കുകയും അവ 1 s ആയി ബന്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസാന സ്റ്റേറ്റ് ഡയഗ്രം ഇതാണ് ഇത് ഈ പ്രത്യേക ഡിഫറൻഷ്യൽ സമവാക്യത്തെ പ്രതിനിധീകരിക്കും ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അതുവഴി നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും എന്ന ഒരു ഡിഫറൻഷ്യൽ സമവാക്യം ഉണ്ട് ഇപ്പോൾ എന്തു ചെയ്യും അവസാന സമവാക്യത്തിൻറെ ഏറ്റവും ഉയർന്ന ഓർഡർ പദം ബാക്കി പദങ്ങളുമായി നമ്മൾ തുല്യമാക്കും അതിനാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക നമുക്ക് എന്ന് എഴുതാം അതിനാൽ നമ്മൾ ഇവിടെ 1 2 3 4 നോഡുകൾ സൃഷ്ടിക്കും ഇപ്പോൾ നിങ്ങൾക്ക് മികച്ച വ്യക്തത നൽകുന്നതിനായി ഈ നോഡ് വിപുലീകരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് യൂണിറ്റ് ഗേയിൻ കൂടി y യോട് ചേർക്കാൻ കഴിയും അതുവഴി നിങ്ങൾക്ക് സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്ന് വ്യക്തമായ ധാരണ ലഭിക്കും അതിനാൽ ഞങ്ങൾ ഈ നാല് നോഡുകൾ ചേർത്തു ഒന്ന് R രണ്ടാമത്തേത് y അത് നിങ്ങൾ Y ഉപയോഗിച്ച് എഴുതും മൂന്നാമത്തേത് dy d അത് sY വച്ച്മാറ്റിയെഴുതും yഎന്നിവ ഉപയോഗിച്ച് മാറ്റിയെഴുതും അതിനാൽ നിങ്ങൾ എന്ത് നടപടിക്രമം ആണു നേരത്തെ ഉപയോഗിച്ചത് അതുതന്നെ ഇവിടെയും ഉപയോഗിക്കുന്നു അതിനാൽ y ആണ് അതിൻറെ കൂടെ ചേർക്കുന്നതെങ്കിൽ എഴുതും അതായത് മൈനസ് 2 കോഫിഫിഷ്യന്റായി ചേർക്കുന്നു ഇനി നിങ്ങൾക്ക് 2 dydt ഉണ്ടെങ്കിൽ 3 വച്ച് y ഗുണിക്കുന്നു അതിനാൽ നമുക്ക് ഈ രണ്ട് കണക്ഷനുകൾ ഉണ്ട് r ന് 1 കോഫിഫിഷ്യന്റും ഉണ്ട് അതിനാൽ r നെ ആയി ബന്ധിപ്പിക്കുന്നു അതിന് ഒന്ന് ഗെയിൻ ആയി കൊടുക്കുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ചർച്ച ചെയ്ത ഇന്റഗ്രേഷൻ ഫംഗ്ഷൻറെ സഹായത്തോടെ ഈ രണ്ട് നോഡുകളും പരസ്പരം ബന്ധിപ്പിക്കും അതിനാൽ നമ്മൾ 1 നെ sy മായി 1s ലൂടെ ബന്ധിപ്പിക്കും കൂടാതെ നിങ്ങൾക്ക് y1 ന് t0s എന്നും y ക്ക് yt0s എന്നുള്ള പ്രാരംഭ അവസ്ഥയും ഉണ്ട് അതിനാൽ ഒടുവിൽ സ്ലൈഡിൽ കാണിച്ച ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ സ്റ്റേറ്റ് ഡയഗ്രം നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അടുത്ത ചോദ്യം വരുന്നു അതിനാൽ നിങ്ങൾ എന്തു ചെയ്യും അതിനാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈ സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്ന് ഗെയിൻ സൂത്രവാക്യം ഉപയോഗിച്ച് നേടുകയും മറ്റ് എല്ലാ ഇൻപുട്ടുകളും പ്രാരംഭ അവസ്ഥകളും 0 ആക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ പ്രാരംഭ അവസ്ഥകളെ 0 ആയി വെക്കുകയും ഇൻപുട്ടിനെ ഔട്ട്പുട്ടിന് തുല്യമാക്കുകയും ചെയ്യും അതിനാൽ Rഉം Ys ഉം ഗെയിൻ സൂത്രവാക്യം ഉപയോഗിച്ചാണ് ലഭിക്കുന്നത് അതിനാൽ ഞങ്ങൾ എന്തു ചെയ്യും ട്രാൻസ്ഫർ ഫങ്ക്ഷൻ ഇതാണ് അതിനാൽ ഇതുപയോഗിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അതിൽ നിങ്ങൾ പ്രധാനമായും സ്റ്റേറ്റ് ഡയഗ്രം ചർച്ചചെയ്തു ഇപ്പോൾ സ്റ്റേറ്റ് സമവാക്യങ്ങൾ കണ്ടെത്താൻ സ്റ്റേറ്റ് ഡയഗ്രം എങ്ങനെ ഉപയോഗിക്കാമെന്ന് അടുത്തതായി കാണാം നന്ദി